ഇതുവരെ നിങ്ങളുടെ അസൈൻമെന്റിൽ നിങ്ങളോട് എഴുതുവാനാവശ്യപ്പെട്ട മുഴുവൻ പ്രോഗ്രാമുകളും യഥാർത്ഥത്തിൽ ഫംഗ്ഷനുകൾ മാത്രമാണ് ഇതാണ് ഫംഗ്ഷനുകൾ ഇവ പൈത്തൺ കോഡിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വിളിക്കപ്പെടുകയും അവയ്ക്ക് വിലകൾ തിരിച്ചു നൽകുകയും ചെയ്യുന്നു നിങ്ങൾക്ക് സ്വയം പ്രവർത്തിക്കുന്ന പൈത്തൺ പ്രോഗ്രാമുണ്ടെങ്കിൽ അത് ഇൻപുട്ട് ശേഖരിക്കുകയും ഔട്ട്പുട്ട് ഉൽപാദിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഉപയോക്താവുമായി അന്യോന്യം സമ്പർക്കം പുലർത്തിയിരിക്കണം പൈത്തൺ എങ്ങിനെയാണ് അതിന്റെ ചുറ്റുപാടുമായി സമ്പർക്കം പുലർത്തുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം കീബോർഡിൽ നിന്ന് ഇൻപുട്ട് ശേഖരിക്കുകയും സ്ക്രീനിലേക്ക് ഔട്ട്പുട്ട് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും അടിസ്ഥാനമായി ചറ്റുപാടുമായി സമ്പർക്കം പുലർത്തുന്ന പ്രക്രിയ പരമ്പരാഗതമായി ഈ രീതികൾക്ക് പറയുന്ന പേരാണ് സ്റ്റാന്റേർഡ് ഇൻപുട്ടും സ്റ്റാന്റേർഡ് ഔട്ട്പുട്ടും അതുകൊണ്ട് സ്റ്റാന്റേർഡ് ഇൻപുട്ടിന്റെ അർത്ഥം കീബോർഡ് അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻപുട്ട് ഉപകരണം വഴി ഇൻപുട്ട് ശേഖരിക്കുക എന്നതാണ് കൂടാതെ സ്റ്റാന്റേർഡ് ഔട്ട്പുട്ടിന്റെ അർത്ഥം സ്ക്രീനിലേക്ക് നേരിട്ട് ഔട്ട്പുട്ട് പ്രദർശിപ്പിക്കുക എന്നതാണ് കീബോർഡ് വഴി ഇൻപുട്ട് ശേഖരിക്കുവാൻ പൈത്തൺ ഉപയോഗിക്കുന്ന അടിസ്ഥാന നിർദ്ദേശമാണ് input നമ്മൾ input ഫംഗ്ഷൻ ആർഗ്യുമെന്റുകളില്ലാതെ വിളിക്കുകയും അത് ഒരു പേരിന് നൽകുകയും ചെയ്യുകയാണെങ്കിൽ ഉപയോക്താവ് ഇൻപുട്ട് കമാന്റിൽ ടൈപ്പ് ചെയ്ത വില ഉപയോക്താവിന്റെ പേരിന് ലഭിക്കുന്നു അത് ഒരു വരിയിലുള്ള ഇൻപുട്ടാണ് ശേഖരിക്കുന്നത് എന്ന് ഓർക്കുക കീബോർഡിലെ റിട്ടേൺ എന്ന ബട്ടണിൽ അടിച്ചാണ് ഇൻപുട്ട് കഴിഞ്ഞു എന്ന സൂചന ഉപയോക്താവ് നൽകുന്ന മാർഗ്ഗം കൂടാതെ റിട്ടേൺ ബട്ടൺ വരെ എന്നാൽ റിട്ടേൺ ബട്ടൺ ഒഴികെയുള്ള മുഴുവൻ പ്രതീകങ്ങളുടെ ശ്രേണിയും ഒരു സ്ട്രിങ്ങ് ആയി ഉപയോക്താവിന്റെ ഡാറ്റയിലേക്ക് അയക്കുന്നു പ്രാഗ്രാം നിങ്ങളുടെ ഇൻപുട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് വളരെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ് അതുകൊണ്ട് ഉപയോക്താവിനുള്ള ഒരു സന്ദേശമായി ഒരു പ്രോംപ്റ്റ് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഉപയോക്താവിനോട് പറയുന്നത് നിങ്ങൾ നൽകേണ്ടതുണ്ട് അതുകൊണ്ട് input നുള്ള ആർഗ്യുമെന്റായി അതുപോലെയുള്ള കാര്യം ഒരു സ്ട്രിങ്ങ് നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും ഇതുപൊലെ input ന് നിങ്ങളൊരു ആർഗ്യുമെന്റ് നൽകുകയാണെങ്കിൽ ഉപയോക്താവ് ഡാറ്റാ ഇൻപുട്ട് ചെയ്യുമ്പോൾ പ്രദർശിപ്പിക്കപ്പെടുന്നത് ഈ സ്ട്രിങ്ങായിരിക്കും ഈ സ്ട്രിങ്ങ് അതേ പോലെ പ്രദർശിപ്പിക്കപ്പെടുന്നു കൂടുതൽ ഉപയോക്ത സൌഹൃദമാക്കുവാൻ അനുയോജ്യമായവ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് ഒരു മിനുട്ടിനുള്ളിൽ നമ്മൾ ഒരു ഉദാഹരണം കാണും എന്നാൽ നിങ്ങൾക്ക് ഒരു സ്പേസ് വിടേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയ ഒരു വരി ഇടയിൽ ചേർക്കേണ്ടതായി വരും അടിസ്ഥാനപരമായി ഉപയോക്താവിൽ നിന്ന് ഒരു വരിയിലെ ഇൻപുട്ട് ശേഖരിക്കുവാനാണ് input കമാന്റ് നിങ്ങൾ ഉപയോഗിക്കുന്നത് കൂടാതെ ഉപയോക്താവിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറയുന്ന ഒരു സന്ദേശം പ്രദർശിപ്പിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും അതുകൊണ്ട് userdata input എന്ന് മാത്രം ഞാൻ പറഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് ഇവിടെ കാണാം ഉപയോക്താവ് എന്ന നിലയ്ക്ക് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്നറിയുന്നില്ല എന്തെങ്കിലും പ്രോസസ് ചെയ്യുകയാണോ ഇൻപുട്ടിന് വേണ്ടി കാത്തിരിക്കുയാണോ എന്ന് നമുക്കുമറിയില്ല പൈത്തൺ പ്രോഗ്രാം കാത്തിരിക്കുക മാത്രമായിരിക്കും ഇപ്പോൾ അത് മാറുന്നത് കാണാം നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയും എന്റർ അടിക്കുയും ചെയ്താൽ അത് തിരിച്ചു വരും ഇനി userdata എന്ന പേരിലടങ്ങിയ ഡാറ്റ എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ ഞാൻ ടൈപ്പ് ചെയ്തത് സ്ട്രിങ്ങ് ആയി എനിക്ക് തരും അതുകൊണ്ട് ഒരു സന്ദേശമില്ലാതെ input നൽകിയാൽ ഉപയോക്താവിന് ആശയക്കുഴപ്പമുണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ എന്താണ് പറഞ്ഞതെന്നു വെച്ചാൽ ഇതുപോലെയുള്ള ഇൻപുട്ട് നൽകുവാൻ നമുക്ക് പറയേണ്ടി വരും ഇപ്പോൾ അത് ഒരു സന്ദേശത്തിനൊപ്പം നൽകുന്നു എന്നാൽ ഉദാഹരണത്തിന് നമ്മൾ ടൈപ്പ് ചെയ്ത സംഖ്യ സന്ദേശത്തിനോട് ഒട്ടിച്ചേർന്നിരിക്കുകയാണ് അത് ഒട്ടും വായിക്കുവാൻ സാധിക്കുന്ന വിധത്തിലല്ല അതുകൊണ്ട് തീർച്ചയായും userdata ഒരു സംഖ്യയല്ല ഒരു മിനുട്ടിനുള്ളിൽ നാം കാണും അത് ഒരു സ്ട്രിങ്ങാണെന്ന് എന്നാൽ നമുക്ക് ഏതെങ്കിലും സ്പേസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമോ ലഭിച്ചിട്ടില്ല എന്നതാണ് വസ്തുത അത് കാണാൻ അല്പം വൃത്തികേടാണ് അതുകൊണ്ട് നമ്മളെന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ഉദാഹരണത്തിന് സന്ദേശം ഇതുപോലെ വരുവാനായി നിങ്ങൾക്ക് തീർച്ചയായും ഒരു കോളനും ഒരു സ്പേസും ഇടാവുന്നതാണ് ഇപ്പോൾ ഇത് കുറച്ചുകൂടി നല്ല പ്രോംപ്റ്റാണ് മാത്രമല്ല n എന്ന പ്രത്യേക പ്രതീകം ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പുതിയ വരിയും ഇടാൻ സാധിക്കും ഇപ്പോൾ സന്ദേശം വന്നിരിക്കുന്നു കൂടാതെ നിങ്ങൾ ഒരു പുതിയ വരി ടൈപ്പ് ചെയ്തിരിക്കുന്നു എല്ലാ അവസരത്തിലും ഔട്ട്പുട്ട് ഒരേ പോലെയാണ് ഉപയോക്താവ് ടൈപ്പ് ചെയ്യുന്ന സ്ട്രിങ്ങ് ഇൻപുട്ട് ശേഖരിക്കുവാൻ നിങ്ങളുപയോഗിക്കുന്ന userdata എന്ന പേരിലേക്ക് നൽകപ്പെടുന്നു ഞാൻ വീണ്ടും അത് ചെയ്യുകയാണെങ്കിൽ അതായത് ഞാൻ 993 എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ userdata "993" എന്ന സ്ട്രിങ്ങ് ആയിത്തീരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് input ഒരു സന്ദേശത്തിന്റെ കൂടെ ഉപയോഗിക്കാം മാത്രമല്ല സന്ദേശം കൂടുതൽ മനസ്സിലാവുന്ന വിധത്തിൽ നിങ്ങൾക്ക് മാറ്റാവുന്നതാണ് നമ്മൾ കണ്ടത് പോലെ നമ്മൾ ഇന്റർപ്രിറ്റർ ഉപയോഗിക്കുമ്പോൾ input ഫംഗ്ഷൻ ഉപയോഗിച്ച് ശേഖരിച്ച ഇൻപുട്ട് എല്ലായ്പ്പോഴും ഒരു സ്ട്രിങ്ങ് ആയിരിക്കും "enter a number" എന്ന് നിങ്ങൾ പറഞ്ഞു ഒരു ഉപയോക്താവ് ഒരു സംഖ്യ ടൈപ്പ് ചെയ്താൽ പോലും ഇത് യഥാർത്ഥത്തിൽ ഒരു സംഖ്യയല്ല ഇത് നിങ്ങൾക്ക് ഒരു സംഖ്യയായി ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് വിലയുടെ തരം പരിവർത്തനം ചെയ്യേണ്ടതായി വരും നമുക്ക് int str തുടങ്ങിയ ഇത്തരം ഫംഗ്ഷനുകളുണ്ട് എന്ന് ഓർമ്മിക്കുക അതുകൊണ്ട് ഉപയോക്താവ് ടൈപ്പ് ചെയ്തത് എന്ത് തന്നെ ആയാലും int എന്ന ഫംഗ്ഷനുപയോഗിച്ച് നമ്മൾ അതിനെ ഒരു പൂർണ്ണസംഖ്യയായി പരിവർത്തനം ചെയ്യേണ്ടതായിട്ടുണ്ട് തീർച്ചയായും ഓർമ്മിക്കുക ഉപയോക്താവ് ഏതെങ്കിലും മാലിന്യമായ വില ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പിശകിന്റെ സന്ദേശം ലഭിക്കും ഉപയോക്താവ് സാധുവല്ലാത്ത ഏതെങ്കിലും വില ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പിശകിന്റെ സന്ദേശം ലഭിക്കും അതുകൊണ്ട് ഈ പിശകിനെ കൈകാര്യം ചെയ്യുവാൻ നമുക്ക് എക്സപ്ഷൻ ഹാൻഡ്ലിംഗ് ഉപയോഗിക്കാം അതുകൊണ്ട് നമുക്കെന്താണ് പറയുവാൻ സാധിക്കുന്നത് എന്നു വെച്ചാൽ userdata ശ്രമിക്കുക നമ്മൾ മുമ്പ് ചെയ്ത കോഡാണിത് ആ രണ്ട് വരികൾ അതുകൊണ്ട് നമ്മളെന്താണ് പറയുവാൻ ആവശ്യപ്പെടുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഈ വരിയിലുള്ള നിർദ്ദശം ചെയ്യുവാനായി ശ്രമിക്കും എന്നാൽ ഉപയോക്താവ് സംഖ്യയല്ലാത്ത മറ്റെന്തെങ്കിലും ടൈപ്പ് ചെയ്താൽ നമ്മൾ അവനോട് വീണ്ടും വില ടൈപ്പ് ചെയ്യുവാൻ ആവശ്യപ്പെടും മാത്രമല്ല ആ തരം പിശകിന് പൈത്തണിൽ പറയുന്ന പേരാണ് വാല്യു എറർ ആ സന്ദേശം നൽകുകയും ചെയ്യും അതുകൊണ്ട് പൈത്തൺ ഇന്റർപ്രിറ്ററിൽ പോയി പരിശോധിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇത് സ്ഥിരീകരിക്കുവാൻ സാധിക്കും അതുകൊണ്ട് നമ്മളെന്താണ് പറയുവാൻ ശ്രമിക്കുന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഒരു വാല്യു എറർ ലഭിച്ചാൽ നമ്മൾ ഉചിതമായ നടപടികളെടുക്കണം അതുകൊണ്ട് നമുക്ക് ഈ ട്രൈ ബ്ലോക്കുണ്ട് കൂടാതെ നമ്മളൊരു വാല്യു എറർ കണ്ടാൽ നമ്മൾ ചെയ്യുന്നത് ഒരു സന്ദേശം പ്രദർശിപ്പിക്കുക എന്നാണ് ഇപ്പോൾ ഇതിന് ശേഷം പ്രിന്റ് എന്താണെന്ന് നമ്മൾ കാണാൻ പോകുകയാണ് എന്നാൽ ഇതൊരു സംഖ്യയല്ല എന്നും വീണ്ടും ശ്രമിക്കുക എന്നുള്ള ഒരു സന്ദേശം നമ്മൾ ഉപയോക്താവിന് നൽകുന്നു മാത്രമല്ല മുഴുവൻ കാര്യങ്ങളും ഒരു വൈൽ ലൂപ്പിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു കൂടാതെ ഈ വൈൽ ലൂപ്പിന്റെ ഉപാധി ട്രൂ ആണ് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ വൈൽ ലൂപ്പിലെ ഉപാധി ഒരിക്കലും ഫാൾസ് ആവുന്നില്ല ഒരു സംഖ്യയ്ക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ വൈൽ ലൂപ്പ് തുടരുന്നു അതുകൊണ്ട് നമ്മളെങ്ങിനെയാണ് ഇതിൽ നിന്ന് പുറത്ത് പോകുന്നത് ശരി ഞാൻ ഇവിടെ എത്തുകയും എനിക്ക് ഒരു വാല്യു എറർ ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പോകുകയും വൈൽ ലൂപ്പ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു എന്നാൽ ഓർമ്മിക്കുക പിശകുകളൊന്നുമില്ലെങ്കിൽ അത് എൽസിൽ എത്തുകയും ചെയ്യും പിശകുകളൊന്നുമില്ലെങ്കിൽ ഈ എൽസ് എക്സിക്യൂട്ട് ചെയ്യുന്നു കൂടാതെ ഈ എൽസ് ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ ഈ ചക്രത്തിൽ നിന്ന് നമ്മളെ പുറത്തേക്ക് വിടുന്നു എന്നതാണ് മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ നമ്മൾ ഒരു അനന്തമായ ലൂപ്പിലാണ് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും അവിടെ നിന്ന് ലഭിക്കുമോ എന്നറിയുന്നത് വരെ ഉപയോക്താവിൽ നിന്ന് ഒരു ഡാറ്റ കൂടി കിട്ടുമോ എന്ന് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ നാം ലൂപ്പിനെ തകർത്തുകൊണ്ട് പുറത്തേക്ക് പോകുന്നു ഇൻപുട്ട് ഔട്ട്പുട്ടിന്റെ പശ്ചാത്തലത്തിൽ എക്സപ്ഷനുകൾ ഉപയോഗിക്കുവാനുള്ള മറ്റൊരു തരം മാർഗ്ഗമാണിത് അവസാനത്തെ ലക്ചറിൽ നാം പറഞ്ഞതു പോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നിവയിൽ പിശകുകളുണ്ടാകുവാനുള്ള സാധ്യത അന്തർലീനമാണ് കാരണം നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അനിശ്ചിതത്വമുള്ള അന്യോന്യം സമ്പർക്കം പുലർത്തുന്ന ഒരു ചുറ്റുപാടിലാണ് അതിന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു എന്നാൽ നിങ്ങൾക്ക് മുൻകൂട്ടി കാണുകയോ നിയന്ത്രിക്കുകയോ ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ദിശയിൽ പരസ്പര സമ്പർക്കം കൊണ്ടുപോകുവാൻ ഉചിതമായ നടപടികളെടുത്തു കൊണ്ട് നിങ്ങൾ ഉറപ്പ് വരുത്തണം അന്യോന്യ സമ്പർക്കത്തിന്റെ മറ്റൊരു ഭാഗമാണ് സന്ദേശങ്ങൾ പ്രദർശിപ്പിക്കുന്നത് അതിന് നമ്മൾ പറയുന്ന പേരാണ് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്നത് പ്രിന്റ് സ്റ്റേറ്റ്മെൻറ് ഉപയോഗിച്ചാണ് ഇത് നേടിയെടുക്കുന്നത് ഔപചാരികമായി അത് നിർവ്വചിച്ചിട്ടില്ലെങ്കിലും അത് നമ്മൾ ഇടയ്ക്കിടെ കാണാറുണ്ട് കോമ ഉപയോഗിച്ച് വേർതിരിച്ചിട്ടുള്ള വിലകളുടെ ഒരു ശ്രേണി നൽകുകയാണ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന്റെ അടിസ്ഥാന രൂപം അതുകൊണ്ട് 'printx y' പ്രദർശിപ്പിക്കുന്നത് x ന്റെ വില അതിന് ശേഷം ഒരു സ്പേസ് അതിന് ശേഷം y യുടെ വില ഇങ്ങിനെയാണ് 'printa b c' പ്രദർശിപ്പിക്കുന്നത് a b c എന്നിവയുടെ 3 വിലകൾ സ്പേസുകളുപയോഗിച്ച് വേർതിരിച്ചാണ് ഇപ്പോൾ ഇത് ചെയ്യുവാനുള്ള മറ്റൊരു കാര്യം ഒരു സ്ട്രിങ്ങ് അല്ലെങ്കിൽ ഒരു സന്ദേശം നേരിട്ട് പ്രദർശിപ്പിക്കുക എന്നതാണ് കഴിഞ്ഞ ഉദാഹരണത്തിൽ നമ്മൾ കണ്ടതുപോലെ print"Not a number Try again" എന്ന് നമുക്ക് പറയാം ഇത് ഈ സ്ട്രിങ്ങിനെ സ്ക്രീനിൽ പ്രദർശിപ്പിക്കും ഇനി നമുക്ക് ഈ രണ്ട് കാര്യങ്ങളെയും രസകരമായി മാർഗ്ഗങ്ങളിലൂടെ സംയോജിപ്പിക്കാം അതുകൊണ്ട് പൊതുവായി കോമ ഉപയോഗിച്ച് വേർതിരിക്കപ്പെട്ട അനിയന്ത്രിതമായ കാര്യങ്ങളുടെ ഒരു ശ്രേണിയെ പ്രിന്റ് എടുക്കുന്നു ഒന്നുകിൽ സന്ദേശങ്ങൾ അല്ലെങ്കിൽ പേരുകളാണ് ഈ കാര്യങ്ങൾ അതുകൊണ്ട് നമുക്ക് x ന്റെയും y യുടെയും വിലകൾ പ്രിന്റ് ചെയ്യണം എന്ന് കരുതുക എന്നാൽ നമുക്ക് ഔട്ട്പുട്ടിലേക്ക് സൂചിപ്പിക്കണം അത് x y എന്നിവയാണ് ഏതാണ് x ഏതാണ് y എന്ന് സൂചിപ്പിക്കാത്ത 2 വിലകൾ സ്ക്രീനിൽ പ്രദർശിപ്പിക്കുന്ന printx y എന്ന് പറയുന്നതിന് പകരം നമുക്ക് കൂടുതൽ വിശദമായി ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിനെ തയ്യാറാക്കാം അത് 4 കാര്യങ്ങൾ പ്രദർശിപ്പിക്കുന്നു അത് പ്രദർശിപ്പിക്കുന്ന ആദ്യത്തെ കാര്യം ഒരു സന്ദേശമാണ് the values are x ഇത് x എന്ന് പ്രദർശിപ്പിക്കും പിന്നെ ഒരു സ്പേസ് വിടുന്നു പിന്നെ x ന്റെ നിലവിവുള്ള വില പ്രദർശിപ്പിക്കും അതിന് ശേഷം y എന്ന് അത് പ്രദർശിപ്പിക്കും അവസാനം y യുടെ നിലവിലുള്ള വില പ്രദർശിപ്പിക്കും അതുകൊണ്ട് കൂടുതൽ വായിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ സന്ദേശങ്ങളെ വിലകളായും പേരുകളായും വിഭജിച്ചുകൊണ്ട് കൂടുതൽ അർത്ഥപൂർണ്ണമായ ഔട്ട്പുട്ട് നമുക്ക് തയ്യാറാക്കുവാൻ സാധിക്കും ഡിഫാൾട്ടായി പ്രിന്റ് എപ്പോഴൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടോ അപ്പോഴൊക്കെ ഒരു പുതിയ വരി കൂട്ടിച്ചേർക്കുന്നു മറ്റു വാക്കുകളിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ ഓരോ പ്രിന്റ് സ്റ്റേറ്റ്മെന്റും വെറുതെ പ്രിന്റ് ചെയ്യുകയാണ് പുതിയ ഒരു വരിയിലാണ് ഔട്ട്പുട്ട് ദൃശ്യമാകുന്നത് കാരണം മുമ്പത്തെ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ടിനെ പുതിയ ഒരു വരിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ നിയന്ത്രിക്കണമെങ്കിൽ ഐച്ഛികമായ ഒരു ആർഗ്യുമെന്റായ end നമുക്കുപയോഗിക്കാം അതുകൊണ്ട് ഇതാണ് നമ്മൾ പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന്റെ അവസാനം ഇടുന്നത് എന്നു പറയുന്ന ഒരു സ്ട്രിങ്ങ് നമുക്ക് നൽകുവാൻ സാധിക്കും ഡിഫാൾട്ടായി ഇവിടെയുള്ള വില പുതിയ വരിയുടെ പ്രതീകമാണ് n അതുകൊണ്ട് മറ്റേതെങ്കുിലും പ്രതീകം കൊണ്ട് നമുക്കിതിനെ മാറ്റി വെയ്ക്കാം ഇവിടെ ഒരു ഉദാഹരണമുണ്ട് നമ്മൾ മൂന്ന് സ്റ്റേറ്റ്മെന്റുകൾ എഴുതുകയാണെന്ന് കരുതുക ആദ്യത്തെ സ്റ്റേറ്റ്മെന്റു് പറയുന്നു 'print"Continue on the"' ഇത് ഒരു സ്ട്രിങ്ങ് മാത്രമാണ് എന്നാൽ ഒരു സ്പേസ് end ന് നൽകിയിരിക്കുന്നു രണ്ടാമത്തെ വരി പറയുന്നു 'print"same line"' ഇപ്പോൾ അത് പറയുന്നു ഒരു ഫുൾസ്റ്റോപ്പും ഒരു പുതിയ വരിയും n end ന് നൽകുന്നു കൂടാതെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റു് പറയുന്നു 'print"Next line "' അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതെന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളിൽ നമ്മൾ ഡിഫാൾട്ടിനെ മാറ്റുകയാണ് ഒരു പുതിയ വരി പ്രിന്റ് ചെയ്യുവാൻ ഡിഫാൾട്ട് മതിയാവുമായിരുന്നു എന്നാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഒരു പുതിയ വരി പ്രിന്റ് ചെയ്യുന്നില്ല നമ്മൾ ഇത് പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റുകളുടെ ഔട്ട്പുട്ട് ഒരേ വരിയിൽ തുടരുകയാണ് കാരണം നമ്മൾ ഡിഫാൾട്ടിലെ പുതിയ വരി പ്രിന്റ് പ്രവർത്തന രഹിതമാക്കിയിട്ടുണ്ട് കൂടാതെ നമ്മൾ വ്യക്തമായി ഒരു പുതിയ വരി ഇവിടെ ഇടുകയും ഇത് അടുത്ത ഔട്ട്പുട്ടിനെ അടുത്ത വരിയിലേക്ക് വരുവാൻ നിർബന്ധിക്കുകയും ചെയ്തിരിക്കുന്നു നമ്മൾ ഇത് തകർക്കുകയും എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് ഈ end ഉണ്ട് ഒരു സ്പേസ് ഇടയിൽ തിരുകാൻ അത് പറയുന്നു അതുകൊണ്ടാണ് ഒന്നാമത്തെ വരിയിലെ 'the' എന്ന വാക്കിന്റെയും രണ്ടാമത്തെ വരിയിലെ 'same' എന്ന വാക്കിന്റയും ഇടയിൽ നമുക്ക് ഒരു സ്പേസ് ലഭിക്കുന്നത് അല്ലെങ്കിൽ 'the' യും 'same' ഉം ഒരുമിച്ച് ചേർന്ന് ഒറ്റവാക്കായി മാറുമായിരുന്നു അതുകൊണ്ട് end ' ' ഈ പ്രിന്റിനെ അടുത്ത പ്രിന്റിൽ നിന്ന് ഒരു സ്പേസ് ഉപയോഗിച്ച് ഫലപ്രദമായി വേർതിരിക്കുന്നു അടുത്ത പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഒരു ഫുൾസ്റ്റോപ്പും പുതിയ വരിയും ഇടയിൽ വെയ്ക്കുന്നു വ്യക്തമായി same എന്ന വാക്ക് ഒരു ഫുൾസ്റ്റോപ്പിൽ അവസാനിക്കുന്നില്ലെങ്കിലും നമ്മൾ ഒരു ഫുൾസ്റ്റോപ്പ് ഉണ്ടാക്കുകയും അതിന് ശേഷം ഒരു പുതിയ വരി ഉണ്ടാക്കുകയും അവസാനം ഈ പുതിയ വരിക്ക് ശേഷം അടുത്ത വരി പുതിയ ഒരു വരിയിൽ വരികയും ചെയ്യുന്നു മാത്രമല്ല തീർച്ചയായും നമ്മളിവിടെ ഒന്നും പറഞ്ഞിട്ടില്ല നമ്മൾ അതിന് ശേഷം പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ നാം വ്യക്തമായി പുതിയ ഒരു വരിയിൽ പ്രിന്റ് ചെയ്യും നമുക്ക് നിയന്ത്രിക്കേണ്ടി വരുന്ന മറ്റൊരു കാര്യം എങ്ങിനെയാണ് ഒരു വരിയിൽ ഇനങ്ങൾ വേർതിരിക്കപ്പെടുന്നത് എന്നതാണ് printx y എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ ഡിഫാൾട്ടായി x ഉം y ഉം ഒരു സ്പേസ് കൊണ്ട് വേർതിരിക്കപ്പെട്ടിരിക്കും നമ്മൾ ഇത് ചെയ്യുകയാണെങ്കിൽ x 7 എന്നും y 10 എന്നും നമ്മൾ വിലകൾ നൽകിയിട്ടുണ്ട് നമ്മൾ പറയുന്നു 'x is 'x 'y is 'y അതിന് ശേഷം നമുക്ക് ഒരു ഫുൾസ്റ്റോപ്പോടുകൂടി അവസാനിപ്പിക്കുകയും വേണം ഇതാണ് നിങ്ങൾക്ക് വേണ്ടത് 'x is' എന്ന ഒരു സ്ട്രിങ്ങ് നിങ്ങൾ എഴുതണം അതിനു ശേഷം x ന്റെ വില മാത്രമല്ല 'y is' എന്ന സ്ട്രിങ്ങിന് ശേഷം y യുടെ വില പിന്നെ ഒരു ഫുൾസ്റ്റോപ്പ് എല്ലാ കാര്യങ്ങളും സ്പേസ് ഉപയോഗിച്ച് വേർതിരിക്കപ്പെട്ടതിനാൽ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു സ്പേസ് എന്നാണ് നിങ്ങൾ ഇത് കാണുന്നുണ്ടോ അതുകൊണ്ട് നമുക്കിവിടെ ഒരു സ്പേസ് ലഭിക്കുന്നു കാരണം അത് ഈ കോമയിൽ നിന്നാണ് നമുക്കിവിടെ ഒരു സ്പേസ് ലഭിക്കുന്നു കാരണം അത് ഈ കോമയിൽ നിന്നാണ് നമുക്കിവിടെ ഒരു സ്പേസ് ലഭിക്കുന്നു കാരണം അത് ഈ കോമയിൽ നിന്നാണ് അതിന് ശേഷം 10 നും ഫുൾസ്റ്റോപ്പിനും ഇടയിൽ അനാവശ്യമായ ഒരു സ്പേസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എങ്ങിനെയാണ് ഈ രണ്ടാമത്തെ സ്പേസ് ഒഴിവാക്കുക സ്പേസിന് ശേഷം ഒരു ഫുൾസ്റ്റോപ്പ് വരുന്നത് നമുക്കാവശ്യമില്ല അതുകൊണ്ട് നമുക്കൊരു ഐച്ഛികമായ ആർഗ്യുമെന്റ് end ഉള്ളതു പോലെ തന്നെ നമുക്കൊരു ഐച്ഛികമായ ആർഗ്യുമെന്റ് sep ഉണ്ട് അത് സൂചിപ്പിക്കുന്നത് വേർതിരിക്കുവാൻ എന്ത് സ്ട്രിംഗ് ഉപയോഗിക്കണം എന്നാണ് അതുകൊണ്ട് നമ്മൾ മുമ്പത്തെ കാര്യമെടുക്കുകയാണെങ്കിൽ അതിനെ എന്തും ഉപയോഗിച്ച് വേർതിരിക്കരുത് എന്ന് നമുക്ക് പറയാം ഇപ്പോൾ തീർച്ചയായും എന്തും ഉപയോഗിച്ച് അതിനെ വേർതിരിക്കരുത് അത് മാറുന്നു കാരണം ഈ x ന്റെ വില 7 ആണ് കൂടാതെ ഇത് കൂടിച്ചേർന്നിരിക്കും അതുകൊണ്ട് പകരം നമ്മൾ ചെയ്യേണ്ടതെന്തെന്നാൽ ഇവിടെ കൃത്യമായി സ്പേസ് ഇടുക എന്നതാണ് മുമ്പ് നമുക്കിവിടെ സ്പേസ് ഉണ്ടായിരുന്നില്ല അവസാനം വെറുതെ ഉദ്ധരണികൾക്ക് ചുറ്റുമായി ഇപ്പോൾ എവിടെയാണോ സ്പേസുകൾ നമുക്ക് ആവശ്യമുള്ളത് അവിടെ നമ്മൾ സ്പേസുകൾ ഇടുന്നു മാത്രമല്ല മറ്റു സ്പേസുകൾ ഇടരുതെന്ന് നമ്മൾ പറയുന്നു അതുകൊണ്ട് ഈ പറയുന്നതെന്താണെന്ന് വെച്ചാൽ x സ്പേസ് ആണ് ഞാൻ ഈ സ്പേസ് നൽകുന്നു സ്പേസ് ഇടരുത് x ന്റെ വില ഇടുക സ്പേസ് ഇടരുത് ഇപ്പോൾ ഞാൻ ഒരു സ്പേസ് കൊടുക്കുന്നു അതുകൊണ്ട് and y is അതിന് ശേഷം ഒരു സ്പേസ് ഇപ്പോൾ ഒരു സ്പേസ് ഇവിടെ ഇടരുത് ഈ കോമകൾ ഒരു സ്പേസും സംഭവന ചെയ്യുന്നില്ല കാരണം സെപറേറ്റർ ശൂന്യമായിരിക്കണമെന്ന് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല പ്രത്യേകിച്ച് ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവസാനത്തെ ഈ കോമ അതായത് y ക്കും ഫുൾസ്റ്റോപ്പിനുമിടയിലുള്ള കോമ ഒരു സ്പേസ് സൃഷ്ടിക്കകയില്ല വാസ്തവത്തിൽ ഇത് നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ x is 7 and y is 10 നിങ്ങൾക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട് ഇതായിരിക്കും മാത്രമല്ല അത് പ്രവർത്തിക്കുന്ന രീതി ഇതാണ് ഇതാണ് ആദ്യത്തെ ബ്ലോക്ക് ഇതുവരെയുള്ള എല്ലാം ഇതാണ് പിന്നെ ഇതാണ് രണ്ടാമത്തെ ബ്ലോക്ക് പിന്നെ ഇതാണ് മൂന്നാമത്തെ ബ്ലോക്ക് ഇതാണ് മുഴുവൻ കാര്യങ്ങളും നൽകിയ സ്പേസുകൾക്കൊപ്പം ഇതാണ് y യുടെ വില അവസാനമായി ഇതാണ് ഫുൾസ്റ്റോപ്പ് പ്രിന്റ് സ്റ്റേറ്റ്മെന്റിന്റെ ഔട്ട്പുട്ടിനെ നിയന്ത്രിക്കുവാനുള്ള ഒരു മാർഗ്ഗം ഇതാണ് അതുകൊണ്ട് ഐച്ഛികമായ ആർഗ്യുമെന്റുകളായ end sep എന്നിവയ്ക്കൊപ്പം തുടർച്ചയായ പ്രിന്റുകൾ ഒരേ വരിയിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് കൂടാതെ ഈ വിലകൾ എങ്ങിനെയാണ് ഒരു വരിയിൽ വേർതിരിക്കപ്പെടുന്നത് എന്നത് ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് കുറച്ച് കൂടുതൽ ചെയ്യേണ്ടതായി വന്നേക്കാം അവയെല്ലാം നിരനിരയായി നിൽക്കുന്ന തരത്തിൽ കാര്യങ്ങളുടെ ഒരു ശ്രേണിയെ ഇടാൻ നമുക്ക് താൽപര്യപ്പെട്ടേക്കാം പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നമുക്കൊരു പട്ടിക പ്രിന്റ് ചെയ്യണമെന്ന് കരുതുക കോളങ്ങൾ ലൈനപ്പ് ചെയ്തിരിക്കണമെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം അതുകൊണ്ട് നമ്മൾ സംഖ്യകളുടെ ഒരു ശ്രേണി പ്രിന്റ് ചെയ്യുന്നത് പോലെ പ്രിന്റ് ചെയ്യുവാനുള്ള ഓരോ ഇനവും വരിവരിയായിരിക്കണം കാരണം സംഖ്യകൾക്ക് വ്യത്യസ്ത വീതികളായിരിക്കാം ചിലതിന് 3 അക്കങ്ങളാകാം ചിലതിന് 5 അക്കങ്ങളാകാം 7 പ്രതീകങ്ങളുടെ വീതി വഹിക്കുന്ന തരത്തിൽ അവയെല്ലാം പ്രിന്റ് ചെയ്യണമെന്ന് നമുക്ക് പറയേണ്ടി വന്നേക്കാം നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇതാണ് വാക്യങ്ങളെ അടുക്കി വെക്കുക ഇപ്പോൾ ഈ ഒരു വിന്യാസത്തിൽ നമുക്ക് കാര്യങ്ങൾ ഇടത് അല്ലെങ്കിൽ വലത് വിന്യാസമായി ചെയ്യേണ്ടതായി വരും നമുക്ക് ഡിഫാൾട്ടായിട്ടുള്ള വീതി ഉദാഹരണത്തിന് 10 പ്രതീകങ്ങളാണെന്ന് കരുതുക അവ സംഖ്യകളാണെങ്കിൽ നമുക്ക് അവയ്ക്ക് വലത് വിന്യാസം കൊടുക്കേണ്ടി വരും അതായത് ഒറ്റയുടെ സ്ഥാനത്തുള്ള അക്കങ്ങൾ കൃത്യമായി വിന്യസിക്കപ്പെടും അവ പേരുകളാണെങ്കിൽ നമുക്ക് അവയ്ക്ക് ഇടത് വിന്യാസം കൊടുക്കേണ്ടി വരും അതായത് കാണാൻ വൃത്തിയില്ലാത്ത തരത്തിലല്ലാതെ നമുക്ക് അവയെ ഇടത്തുനിന്ന് വലത്തോട്ടേക്ക് വായിക്കുവാൻ സാധിക്കും മാത്രമല്ല ശരാശരി പോലെയുള്ള എന്തെങ്കിലും നമ്മൾ കണക്കുകൂട്ടി കണ്ടുപിടിക്കുകയാണെങ്കിൽ കറൻസി പോലെയുള്ള എന്തെങ്കിലുമാണെങ്കിൽ നമുക്ക് മുഴുവൻ കാര്യങ്ങളും പ്രദർശിപ്പിക്കണമെന്നില്ല നമുക്ക് അവയെ 2 ദശാംശ സ്ഥാനം വെച്ച് മുറിച്ചു മാറ്റാവുന്നതാണ് ഇതൊക്ക ഔട്ട്പുട്ടിന്റെ രൂപഘടന തയ്യാറാക്കുന്നതിൽ വളരെ സങ്കീർണ്ണമായ മാർഗ്ഗങ്ങളാണ് കൂടാതെ ഇത് എങ്ങിനെയാണ് ചെയ്യുന്നതെന്ന് അടുത്ത ലക്ചറിൽ നമുക്ക് കാണാം എന്നാൽ ഇപ്പോൾ തന്നെ end sep എന്നിവ ഉപയോഗിച്ച് നിങ്ങൾക്ക് കുറഞ്ഞ രീതിയിലുള്ള രൂപഘടന ചെയ്യാവുന്നതാണ് ചുരുക്കത്തിൽ കീബോർഡിൽ കൂടി ഇൻപുട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി ഐച്ഛികമായ ഒരു സന്ദേശത്തോടുകൂടി നിങ്ങൾക്ക് input സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാം print സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് പ്രിന്റ് ചെയ്യാം ഇനി നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതു പോലെ പൈത്തൺ 2 ഉം പൈത്തൺ 3 ഉം തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് കൂടാതെ വിവിധ ഉറവിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന python 2 കോഡ് പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ പ്രകടമായ വ്യത്യാസങ്ങളിൽ ഒന്ന് ഇവിടെയുണ്ട് പൈത്തൺ 2 ൽ പ്രിന്റ് സ്പേസ് എന്ന് നിങ്ങൾക്ക് പറയാം കൂടാതെ അതിന് ശേഷം പ്രിന്റിന് കൊടുക്കുന്ന ആർഗ്യുമെന്റുകൾ എന്താണെന്ന് നൽകുക Python 3 ൽ നിർബന്ധമായും ഇത് ഒരു ഫങ്ക്ഷനെ വിളിക്കുന്നത് പോലെയാണ് ബ്രാക്കറ്റിനുള്ളിൽ python 2 ൻ ബ്രാക്കറ്റുകൾ ഐച്ഛികമാണ് അതുകൊണ്ട് പൈത്തൺ 2 കോഡിൽ ബ്രാക്കറ്റുകളില്ലാതെ print x y പോലെയുള്ള ചിലത് നിങ്ങൾ പലപ്പോഴും കാണും ഇത് പൈത്തൺ 2 ൽ ശരിയാണ് എന്നാൽ python 3 ൽ ഇത് ശരിയല്ല ഇതിനെക്കുറിച്ച് ശ്രദ്ധാലുവായിരിക്കുക കൂടാതെ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ചാൽ പരിമിതമായ നിയന്ത്രണത്തോടുകൂടി നമുക്ക് print നെ നമുക്കാവശ്യമുള്ളത് പോലെ പെരുമാറുന്നതാക്കി മാറ്റാം അതുകൊണ്ട് അവസാനം എന്ത് ഇടണം എന്ന് നമുക്ക് വ്യക്തമാക്കുവാൻ സാധിക്കും പ്രത്യേകിച്ച് ഒരു പുതിയ വരി ഇടരുത് എന്ന് നമുക്ക് അതിനോട് പറയാം അതുകൊണ്ട് ഒരേ വരിയിൽ പ്രിന്റ് ചെയ്യുന്നത് തുടരുക മാത്രമല്ല ഡിഫാൾട്ടായ സ്പേസ് പ്രതീകമല്ലാത്ത ഏതെങ്കിലും കൊണ്ട് നമുക്ക് വിലകളെ വേർതിരിക്കുവാൻ സാധിക്കും